ഹലോ നമ്മുടെ ഇന്നത്തെ പ്രഭാഷണമായ പ്രവർത്തനജീവ ശാസ്ത്രത്തിൻറെ ആമുഖത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ചു പ്രഭാഷണങ്ങളിൽ അർബുദം ഉൾപ്പെടെയുള്ള പലതരം രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഓക്കേ അതിറോസ്ക്ലീറോസിസും പേശിക്ഷയവും ഈ രോഗങ്ങൾക്കു പുറമേ ചില അടിസ്ഥാന കോശപ്രക്രിയകൾ ആയ സെൽ മൈഗ്രേഷൻ സെൽ സ്പ്രെഡിംഗ് കോശവൈവിധ്യവൽകരണം എന്നിവയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു ഡിഫറൻഷിയേഷൻ പോലെയുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതു പോലെയുള്ള രോഗങ്ങൾ പ്രകടമാകാൻ കൂടുതൽ സമയമെടുക്കും സെൽ മൈഗ്രേഷനും സെൽ സ്പ്രെഡിങ്ങിനും ഒരു ക്രമം ആവശ്യമാണ് കോശങ്ങൾ സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ 10 മുതൽ 100 മൈക്രോൺ വേഗതയിലാണ് ഈ പ്രക്രിയകളിൽ പങ്കെടുക്കുന്ന വസ്തുക്കൾ കൃത്യമായ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കണം അതിനാൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കൃത്യമായി സാധിക്കും എന്നിരുന്നാലും വൈവിധ്യവൽക്കരണം പോലെയുള്ള പ്രക്രിയകൾക്ക് ആഴ്ചകൾ വേണ്ടി വരും ഒരു മൂല കോശത്തിന് വൈവിധ്യവൽക്കരണം നടന്ന് നാഡീകോശമോ പേശികോശമോ അല്ലെങ്കിൽ അസ്ഥികോശമോ ആകണമെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമാണ് ഇതിനായി ടോപോഗ്രാഫി അല്ലെങ്കിൽ സ്റ്റിഫ്നെസ്സിന്റെ രൂപത്തിൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിൽ എൻകോഡ് ചെയ്തിരിക്കുന്ന ഭൌതിക സിഗ്നലുകൾ കോശമർമ്മത്തിലെത്തി അവിടെയുള്ള പലതരം ജീനുകളെ സജീവമാക്കണം ജീനുകൾ മാത്രമല്ല എപിജനറ്റിക് മാറ്റങ്ങളും ഉണ്ടാകണം അതിനാൽ കോശത്തിന്റെ ബാഹ്യഭാഗത്തുനിന്ന് കോശമർമ്മത്തിലേക്ക് എങ്ങനെയാണു അടയാളങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും ജീനുകളെ സജീവമാക്കുന്നതെന്നും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ മർമ്മം വളരെ പ്രധാനപ്പെട്ട ഒരു കമാൻഡ് സെൻറർ ആണ് അടുത്ത 34 പ്രഭാഷണങ്ങളിൽ നമ്മൾ മർമ്മത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അടുത്ത മൂന്നു നാല് പ്രഭാഷണങ്ങളിൽ നമ്മൾ മർമ്മത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് മർമ്മത്തിൻറെ വലിപ്പം ആകൃതി ഘടന ഭൌതിക സവിശേഷതകളായ കാഠിന്യം എന്നിവ എന്തൊക്കെയാണ് മോളിക്യൂലർ പ്ലയെർസ് എങ്ങനെയാണ് ഈ സവിശേഷതകൾ തിരിച്ചറിയുന്നത് സെൽ മൈഗ്രേഷൻ സെൽ ഡിഫറൻഷിയേഷൻ എന്നീ പ്രക്രിയകൾക്ക് ഈ സവിശേഷതകൾ എങ്ങനെയാണ് പ്രസക്തമാകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം മർമ്മത്തെക്കുറിച്ചുള്ള പൊതു ചർച്ചയിലൂടെ നമുക്ക് തുടങ്ങാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാക്ടീരിയൽ കോശങ്ങളിലേതിൽ നിന്ന് വിപരീതമായി യൂക്കാരിയോട്ടിക് കോശങ്ങളിൽ ജനിതക വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് മർമ്മത്തിനുള്ളിലാണ് ഓക്കേ മർമ്മത്തോടുകൂടിയ ഒരു കോശത്തിന്റെ ചിത്രം വരച്ചാൽ ഇതുപോലെയിരിക്കും വശങ്ങളിൽ കൂടി ശരിയായ ആകൃതിയും വലിപ്പവും നോക്കി വരച്ചാൽ മർമ്മം ഏതാണ്ട് ഇതുപോലെ ഇരിക്കും ഓക്കേ അതിനാൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും മർമ്മം വലുതാണെന്ന് അതിൽ അതിശയിക്കാനില്ല തീർച്ചയായും കോശത്തിനുള്ളിലെ ഏറ്റവും വലുതും കടുപ്പമേറിയതുമായ കോശാംഗം ആണ് മർമ്മം അപ്പോൾ എന്തുകൊണ്ടാണ് മർമ്മം ഇത്ര കടുപ്പമേറിയ ഘടകമായത് എന്തുകൊണ്ടെന്നാൽ ഒരു കോശത്തിലെ മുഴുവൻ ഡിഎൻഎ യും നീട്ടിയാൽ അത് മീറ്ററുകൾ നീളമുള്ളതും 5 മുതൽ 10 വരെ മൈക്രോൺ വലിപ്പമുള്ളതുമാണ് അതിനാൽ ഇത്രയും അളവിലുള്ള ഡിഎൻഎ മർമ്മത്തിനകത്ത് ഒതുക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് മർമ്മം വളരെ കടുപ്പമുള്ളതായത് മർമ്മത്തിനകത്തെ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇനി മർമ്മത്തിൻറെ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ മർമ്മത്തിന് രണ്ടു സ്തരങ്ങളുണ്ട് ആന്തരമർമസ്തരം അഥവാ ഐ എൻ എം ഇതാണ് ഐ എൻ എം ഇതാണ് ഒ എൻ എം അഥവാ ബാഹ്യമർമസ്തരം ഇതിനുള്ളിൽ മുഴുവൻ ഡിഎൻഎ യും ഉണ്ട് ഇത് ക്രോമസോമുകളായി കാണുന്നു ക്രോമസോമിന്റെ അല്ലെങ്കിൽ ഡിഎൻഎയുടെ ചില ഭാഗം മർമ്മസ്തരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതായത് ആന്തരമർമസ്തരവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഞാൻ ചുവപ്പിൽ വരച്ചവയാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഈ സുഷിരങ്ങളിൽ കൂടിയാണ് മർമ്മത്തിനകത്തേക്കും പുറത്തേക്കും പ്രോട്ടീനുകൾ സഞ്ചരിക്കുന്നത് മർമ്മത്തിനകത്തേക്കു പ്രവേശിക്കുന്ന പ്രോട്ടീനുകളെ ന്യൂക്ലിയർ ലോക്കലൈസേഷൻ സിഗ്നൽ എന്നാണ് വിളിക്കുന്നത് ഈ പ്രോട്ടീനുകളുടെ പ്രവേശനം സാധ്യമാക്കുന്നത് മറ്റൊരു പ്രോട്ടീനായ ഇമ്പോർട്ടിനുകൾ ആണ് ഇതേപോലെ മർമ്മത്തിൽ നിന്ന് പുറത്തേക്കുള്ള സഞ്ചാരം സാധ്യമാക്കാനായി മറ്റു പ്രോട്ടീനുകൾ ഉണ്ട് 100 മുതൽ 1000 വരെ ന്യൂക്ലിയർ എൻവലപ്പ് പ്രോട്ടീനുകൾ ഉണ്ട് ഈ പ്രോട്ടീനുകളെ ട്രാൻസ് മെംബ്രേയ്ൻ പ്രോട്ടീൻസ് എന്നു പറയുന്നു സെൽ ടൈപ്പുകൾക്കനുസരിച്ച് ഈ പ്രോട്ടീനുകളുടെ എക്സ്പ്രഷൻ വ്യത്യാസപ്പെടാം അതിനാൽ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നുവെച്ചാൽ എങ്ങനെയാണ് ഈ ഭൌതിക സൂചകങ്ങൾ ജീൻ എക്സ്പ്രഷൻ സാധ്യമാക്കുന്നത് മെക്കാനിക്കലി ഇൻഡ്യൂസ്ഡ് ന്യൂക്ലിയർ ഡിഫോർമേഷനുകൾ പ്രവചനാത്മകമായ രീതിയിൽ എങ്ങനെയാണ് ജീൻ എക്സ്പ്രഷനെ നിയന്ത്രിക്കുന്നത് അതിനാൽ എന്തൊക്കെ മോളിക്കുലാർ മെക്കാനിസങ്ങളാണ് ഭൌതിക സൂചകങ്ങളെ തിരിച്ചറിയാനും അതിനോട് പ്രതികരിക്കാനും മർമ്മത്തെ സഹായിക്കുന്നത് കൂടാതെ മർമ്മത്തിൻറെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് വിവിധ രോഗസാഹചര്യങ്ങളിൽ മാറ്റപ്പെടുന്നത് അതിനാൽ ഇക്കാര്യത്തിൽ ലിങ്ക് എന്നു വിളിക്കുന്ന ഈ കോംപ്ലക്സിനെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ലിങ്ക് എന്നത് ലിങ്കർ ഓഫ് ന്യൂക്ലിയോ സ്കെലട്ടൻ ആൻഡ് സൈറ്റോസ്കെലട്ടൻ എന്നതിൻറെ ചുരുക്കരൂപമാണ് ഞാൻ ഒരു ചെറിയ ഭാഗത്തിന്റെ ചിത്രം വരയ്ക്കുകയാണ് ഇതാണ് ഔട്ടർ ന്യൂക്ലിയാർ മെംബറേൻ ഇതാണ് ഇന്നർ ന്യൂക്ലിയാർ മെംബ്രേയ്ൻ ഇന്നർ ന്യൂക്ലിയാർ മെംബ്രേയ്ൻൻറെ അടിയിൽ നിങ്ങൾക്ക് ഇൻറർ മീഡിയറ്റ് ഫിലമെൻറ് കളുടെ ഒരു ജാലികയുണ്ട് അതുകൊണ്ട് ഇത് ഇൻറർ മീഡിയറ്റ് ഫിലമെൻറ്കളുടെ ഒരു ജാലികയാണ് ഇതിന് 25 മുതൽ 50 നാനോമീറ്റർ വരെ കനമുണ്ട് ഈ ഇൻറർ മീഡിയറ്റ് ഫിലമെന്റുകളെ ലാമിനുകൾ എന്നു വിളിക്കുന്നു ലാമിനുകൾ ന്യൂക്ലിയസിന്റെ ഘടനാപരമായ ബലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ മർമത്തിനകത്ത് ലാമിനുകൾ ഉണ്ട് ഇതൊരു വൺവേ കണക്ഷനാണ് പേരു സൂചിപ്പിക്കുന്നതുപോലെ ഇത് ന്യൂക്ലിയർ സ്കേലേട്ടനെയും സൈറ്റോസ്കേലേട്ടനെയും ബന്ധിപ്പിക്കുന്നു അതായത് പ്രോട്ടീനുകളിലൂടെ അതിനാൽ നിങ്ങൾക്ക് മൈക്രോട്യൂബുളുകളുടെ അല്ലെങ്കിൽ ആക്റ്റിന്റെ ഈ ശൃംഖല ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഇതിനെ ബന്ധിപ്പിക്കുന്ന ചില കണക്ഷനുകൾ നിലവിലുണ്ട് അതായത് നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരു ഫിസിക്കൽ നെറ്റ്വർക്ക് ഉണ്ട് ഇതാണ് മൊത്തത്തിലുള്ള നിങ്ങളുടെ കോശം കൂടാതെ ഇത് മർമ്മ സ്തരത്തിന്റെ ചെറിയ ഒരു ഭാഗമാണ് ഓക്കേ ഇത് നിങ്ങളുടെ ആക്ടിൻ സ്ട്രെസ്സ് ഫൈബർ ആണ് അതേപോലെ ഇത് മൈക്രോട്യൂബുൾ ആയിരിക്കും ന്യൂക്ലിയർ മെംബ്രയ്നെ ഒന്നുകിൽ ആക്റ്റിൻ അല്ലെങ്കിൽ മൈക്രോട്യൂബുൾ സൈറ്റോസ്ക്ലെറ്റോണുകളുമായി ബന്ധിപ്പിക്കുന്ന തന്മാത്രകളാണ് നെസ്പ്രിൻസ് നിങ്ങൾക്ക് പലതരത്തിലുള്ള നെസ്പ്രിൻസ് ഉണ്ട് നെസ്പ്രിൻസ് ഒന്നും രണ്ടും Nesprins 1 2 ആക്റ്റിൻ സൈറ്റോസ്ക്ലെറ്റോണുമായി ന്യൂക്ലിയർ മെംബ്രയ്നെ ബന്ധിപ്പിക്കുന്നു നെസ്പ്രിൻസ് 3 ഇന്റർമീഡിയറ്റ് സൈറ്റോസ്ക്ലെട്ടനുമായി ന്യൂക്ലിയർ മെംബ്രയ്നെ ബന്ധിപ്പിക്കുന്നു ഇന്റർമീഡിയറ്റ് സൈറ്റോസ്ക്ലെട്ടൺ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിമെന്റിൻ നെറ്റ്വർക്ക് ആണ് കൂടാതെ നെസ്പ്രിൻസ് 4 ഉണ്ട് ഇത് ന്യൂക്ലിയർ മെംബ്രയ്നെ കൈനസിൻ 1 ൽ കൂടി മൈക്രോട്യൂബുൾ സൈറ്റോസ്ക്ലെറ്റനുമായി ബന്ധിപ്പിക്കുന്നു മെംബ്രയൻ ഞാൻ കുറച്ചുകൂടി വിശദമായി വരച്ചാൽ ഈ നെസ്പ്രിൻ തന്മാത്രകൾ സൺ പ്രോട്ടീനുകൾ എന്നറിയപ്പെടുന്ന മറ്റു ചില പ്രോട്ടീനുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സൺ പ്രോട്ടീനുകൾ നെസ്പ്രിനുകളെ ന്യൂക്ലിയർ മെംബറേനുമായും കൂടാതെ സൺ പ്രോട്ടീനുകളെ തമ്മിലും ബന്ധിപ്പിക്കുന്നു നിങ്ങൾക്ക് സൺ1 അല്ലെങ്കിൽ സൺ2 പ്രോട്ടീനുകൾ ഉണ്ട് ഇവ ന്യൂക്ലിയർ ലാമിനയുടെ സൈറ്റോസ്ക്ലെട്ടൻ വഴി ഇന്നർ ന്യൂക്ലിയർ മെംബറേനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ലാമിനുകൾ മറ്റ് വലിയ ന്യൂക്ലിയർ മെംബ്രൻ പ്രോട്ടീനുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു മറ്റു പ്രോട്ടീനുകളായ എമറിൻ അല്ലെങ്കിൽ മാൻ 1 കൂടാതെ ഹെറ്ററോക്രോമറ്റിൻ എന്നിവ ഉണ്ട് ലാമിനുകൾക്ക് ഇവയെല്ലാമായും ബൈൻഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ അവയുടെ ഘടനാപരമായ പങ്ക് നിറവേറ്റും യഥാർത്ഥത്തിൽ ലാമിനുകൾ ന്യൂക്ലിയസിന്റെ ബയോഫിസിക്കൽ ഗുണങ്ങളെ നിർണയിക്കുന്നു ന്യൂക്ലിയർ എൻവലപ്പിലെ ഫോഴ്സ് ട്രാൻസ്ഡ്യൂസറുകളായി പ്രവർത്തിക്കാൻ വിഭാവനം ചെയ്യപ്പെട്ടവരാണ് ലാമിനുകൾ ന്യൂക്ലിയർ ആങ്കറേജ് സെൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ക്രോമസോം ചലനങ്ങൾ പോലെയുള്ള പ്രക്രിയകൾക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ എങ്ങിനെയാണ് ഫോഴ്സുകൾ ന്യൂക്ലിയസിലേക്ക് കടന്ന് ജീൻ എക്സ്പ്രഷനെ നിയന്ത്രിക്കുന്ന സിഗ്നലിംഗ് കാസ്കേഡുകളായി മാറുന്നതെന്ന് വിശദീകരിക്കാനായി പല പ്രവർത്തനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് പ്രോട്ടീൻ ആയ ഫൈബ്രോനെക്റ്റിനിൽ കണ്ടതുപോലെ പ്രോട്ടീൻ അൺ ഫോൾഡിങ് ആണ് ഒരു മെക്കാനിസം രണ്ടാമത്തെ മെക്കാനിസം ലാമിൻ നെറ്റ്വർക്കിലെ ലാമിനുകളുടെ ടെൻഷനെ ആശ്രയിച്ചുകൊണ്ടുള്ള സ്ഥിരത കൂടാതെ മറ്റു ചില കേസുകളിൽ ക്രോമാറ്റിനുകളുടെ വലിച്ചു നീട്ടൽ ബൈൻഡിംഗിനായുള്ള സ്ഥലം കൊടുക്കുന്നു നിങ്ങൾ ലാമിൻ എക്സ്പ്രഷൻ നോക്കുകയാണെങ്കിൽ രണ്ടുതരത്തിലുള്ള ലാമിനുകൾ കാണാം ലാമിൻ എ യും ലാമിൻ സി യും Lamin AC ഈ രണ്ടു ലാമിൻ പ്രോട്ടീനുകളും ഉണ്ടാകുന്നത് ലാമിൻ A ജീനിൻറെ ആൾട്ടർനേറ്റീവ് സപ്ലൈസിങ്ങിലൂടെയാണ് കൂടാതെ ലാമിൻ B1 ഉം ലാമിൻ B2 ഉം ഉണ്ട് അതായത് നിങ്ങൾക്ക് എ ടൈപ്പ് ലാമിനുകളും ബി ടൈപ്പ് ലാമിനുകളും ഉണ്ട് അതിനാൽ മിക്ക ഡിഫറെൻഷിയേറ്റഡ് കോശങ്ങളിലും ലാമിൻ എ യോ സി യോ Lamin AC ആണ് കാണുന്നത് എന്നാൽ മൂലകോശങ്ങളിൽ ഉദാഹരണത്തിന് ഭ്രൂണ മൂലകോശങ്ങളിൽ ലാമിൻ എയും സിയും Lamin AC വളരെ കുറവാണ് എന്നാൽ വളർച്ചാഘട്ടത്തിൽ ബി ടൈപ്പ് ലാമിനുകളാണ് പ്രകടമാകുന്നത് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം ശരീരത്തിനുള്ളിൽ ഒരു ടിഷ്യു സ്റ്റിഫ്നെസ്സ് സ്കെയിൽ ഉണ്ടെന്ന് ഇതനുസരിച്ച് മസ്തിഷ്കത്തിന്റെ സ്റ്റിഫ്നെസ്സ് 100 പാസ്ക്കലും അസ്ഥികലയുടേത് 10 kPa യും കൊളാജൻ ഉള്ള അസ്ഥികലകൾക്ക് 100 kPa യുമാണ് ഒരു സെമിനൽ വർക്കിൽ ഡിഷറും ഡെന്നിസ് ഡിഷറും സഹപ്രവർത്തകരും ഇത് കാണിച്ചുതന്നിരുന്നു ഒരു ആക്സിസിൽ ടിഷ്യു ഇലാസ്റ്റിസിറ്റി യും മറ്റേ ആക്സിസിൽ ലാമിൻ എ ടു ലാമിൻ ബി സ്റ്റോഷിയോമെട്രിയും എടുത്ത് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു രേഖീയ ബന്ധം കിട്ടും ഇത് 1 ആണെന്ന് നമുക്ക് പറയാം മൃദുകലകളിൽ ഇത് 1 ൽ താഴെയാണ് തലച്ചോറിൽ ഇത് 1 kPa എന്ന ഓർഡറിൽ ആണ് അതിനാൽ ഇതാണ് നിങ്ങളുടെ തലച്ചോറിന്റെ ഇലാസ്റ്റിസിറ്റി ഈ സോണുകളിൽ നിങ്ങൾക്ക് നാഡീകോശങ്ങൾ ഉണ്ട് മറ്റു ചിലയിടങ്ങളിൽ കരൾ വൃക്ക ശ്വാസകോശം എന്നിവയുണ്ട് ഈ ക്ലസ്റ്ററിൽ പേശികോശങ്ങളുണ്ട് കൂടാതെ അസ്ഥികലകളായ തുടയെല്ല് തലയോട്ടി എന്നിവയുമുണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മൃദുകലകളിൽ ലാമിൻ എയും ലാമിൻ ബിയും തമ്മിലുള്ള അനുപാതം ഒന്നിൽ കുറവാണ് അതായത് ലാമിൻ ബി ലാമിൻ എ യെക്കാൾ കൂടുതൽ ആയതുകൊണ്ടാണ് ഇവ തമ്മിലുള്ള അനുപാതം വളരെ കുറഞ്ഞത് പിന്നെ എന്തുകൊണ്ടാണ് കഠിന കലകളിൽ ഇവയുടെ അനുപാതം കൂടുന്നത് അവിടെ ലാമിൻ എ യുടെ എക്സ്പ്രഷൻ കൂടുതലാണ് ഇതോടൊപ്പം എങ്ങനെയാണ് കൊളാജന്റെ അളവ് കലകളുടെ സ്റ്റിഫ്നെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പ്ലോട്ട് ചെയ്താൽ കൊളാജെൻറെ സ്കെയിലിംഗ് റിലേഷൻഷിപ്പ് 1 കിട്ടും 1 5 പവറിലുള്ള ബൾക്ക് ടിഷ്യു സ്റ്റിഫ്നെസ്സ് കിട്ടും അതിനാൽ ഇതിനെ പവർ ലോ റിലേഷൻഷിപ്പ് എന്നു പറയുന്നു അതേപോലെ നമുക്ക് ഈ ലാമിൻ അനുപാതമുണ്ട് ലാമിൻ എ അനുപാത സ്കെയിൽ ഇ 0 7 e 0 7 ഉം ലാമിൻ എയും ബിയും തമ്മിലുള്ള അനുപാത സ്കെയിൽ ഇ 0 6 ഉം e 0 6 ആണ്

ഇവിടെ ഇ എന്നത് ടിഷ്യുവിൻറെ മൈക്രോ ഇലാസ്തികത ആണ് ഇത് എന്താണ് പറയുന്നതെന്നുവെച്ചാൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് സ്റ്റിഫ്നെസിലെ വർദ്ധനവ് അല്ലെങ്കിൽ ടിഷ്യു സ്റ്റിഫ്നെസിലെ വർദ്ധനവ് ലാമിൻ എ യും ലാമിൻ ബിയും തമ്മിലുള്ള അനുപാതത്തിൻറെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൂടാതെ ലാമിൻ എ ബി അനുപാതത്തിലെ വർദ്ധനവ് ന്യൂക്ലിയസിന്റെ സ്റ്റിഫ്ന്സിന്റെ വർധനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് എന്താണ് കാണിക്കുന്നതെന്നുവെച്ചാൽ ഒരു കോശം കാഠിന്യമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളതെങ്കിൽ ആ കോശത്തിൽ ചെലുത്തപ്പെടുന്ന ബലം കൂടുതലാണ് കോശം കൂടുതൽ കംപ്രസ്സീവ് ഫോഴ്സിനോ അല്ലെങ്കിൽ വളരെ വലിയ ടെൻസൈൽ ഫോഴ്സിനോ വിധേയമാകുന്നു ഈ കണ്ടീഷനിൽ ന്യൂക്ലിയസ് ഇതിനോട് പ്രതികരിക്കുന്നു ലാമിൻ ബി യുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാമിൻ എ യുടെ എക്സ്പ്രഷൻ ഉയർത്തിക്കൊണ്ടാണ് ന്യൂക്ലിയസ് പ്രതികരിക്കുന്നത് അതിന്റെ ഫലമായി ന്യൂക്ലിയസ് സ്റ്റിഫ് ആകുന്നു നമുക്കൊരു റീഡിങ് അസൈൻമെന്റ് ഉണ്ട് അതിനാൽ ഈ പേപ്പർ നിങ്ങൾ വായിക്കുക രചയിതാക്കൾ എന്താണ് ഈ പഠനത്തിൽകൂടി കാണിച്ചതെന്തെന്നു വെച്ചാൽ ന്യൂക്ലിയാർ മെംബ്രേയ്ൻ നോക്കുമ്പോൾ ഇതാണ് ലാമിൻ എ സ്റ്റെയിനിംഗ് ഇത് എസി സ്റ്റെയിനിംഗ് AC staining കൂടാതെ ഇത് ലാമിൻ ബി സ്റ്റെയിനിംഗ് ആണ് നിങ്ങൾ ഇത് കോ ലോക്കലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ സെഗ്മെന്റുകൾ ഓവർലാപ്പ് ചെയ്യും ഇത് കമ്പ്ലീറ്റ് ഓവർലാപ്പാണ് ഈ രണ്ടു നെറ്റ്വർക്കുകളും അടുപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് ഇത് കാണിക്കുന്നത് അതായത് ന്യൂക്ലിയർ മെംബറേനിൽ ലാമിൻ എ നെറ്റ് വർക്കും ബി നെറ്റ് വർക്കും Lamin AB network അടു പ്പിച്ചുവച്ചിരിക്കുകയാണ് ലാമിൻ എ ക്ക് ഒന്നിലധികം ഫോസ്ഫോറിലേഷൻ സൈറ്റുകൾ ഉണ്ട് ഇതിൽ ഒരെണ്ണം സെറീൻ 22 ലാണ് ഒരെണ്ണം സെറീൻ 390 ൽ ഒന്ന് സിസ്റ്റൈൻ 522 അങ്ങനെ പല സൈറ്റുകൾ ഉണ്ട് രചയിതാക്കൾ ഒരു പരീക്ഷണത്തിൽകൂടി കാണിച്ചതെന്തെന്നു വെച്ചാൽ നിങ്ങൾ കോശങ്ങൾ എടുക്കുക ഈ കോശങ്ങളിലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റൈൻ റെസിഡ്യൂസിനെയും ഒരു ചായം ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക തുടർന്ന് കോശങ്ങളെ സമ്മർദ്ദത്തിന് വിധേയമാക്കുക തന്മൂലമുണ്ടാകുന്ന ബലം അൺഫോൾഡിങ്ങിന് കാരണമാകുന്നു ഈ അൺഫോൾഡിങ് ഫോസ്ഫോറിലേഷനിലേക്ക് നയിക്കുന്നു ഇനി നിങ്ങൾ സിസ്റ്റീൻ 522 ൻറെ ലേബലിംഗ് ട്രാക്കു ചെയ്യുകയാണെങ്കിൽ സിസ്റ്റീൻ 522 എത്രമാത്രം ലേബെൽഡ് ആയി എന്നുള്ളത് ഷിയർ സ്ട്രെസ്സിന്റെ ഫങ്ഷൻ ആയി എടുക്കാം ലേബലിംഗ് അളവിലുള്ള വർദ്ധനവ് നിങ്ങൾക്കു കാണാൻ കഴിയും ഇതിൽ നിന്നും കോശം എത്രമാത്രം ബലത്തിന് വിധേയമായെന്നും അത് ന്യൂക്ലിയസിലേക്ക് പ്രവേശിച്ചുവെന്നും അതിൻറെ പരിണതഫലമായി ലാമിൻ നെറ്റ്വർക്കിന് ഉണ്ടായ അൺഫോൾഡിങ്ങും മനസ്സിലാക്കാം ഇത് സിസ്റ്റൈൻ റിയാക്ടീവ് പ്രോബിന്റെ ലേബലിംഗ് അളവിലുള്ള വർദ്ധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉയർന്ന സമ്മർദ്ദ മേഖലകളിൽ ഷിയർ സ്ട്രെസ് കൂട്ടുകയാണെങ്കിൽ കോശങ്ങളിലെ ലാമിനുകൾ ഒന്നിച്ചുചേരും അതുകൊണ്ട് ഈ സോണിൽ യഥാർത്ഥത്തിൽ കോശങ്ങൾ കൂടിച്ചേരുകയാണ് ചെയ്യുന്നത് ബക്സ് എന്നയാൾ മറ്റൊരു രസകരമായ പഠനം നടത്തി സോഫ്റ്റ് ജെല്ലുകളിൽ കോശങ്ങളെ പ്ലേറ്റ് ചെയ്തു ഇതിൽ കോശങ്ങളും ന്യൂക്ലിയസും വൃത്താകൃതിയിലായി സ്റ്റിഫ് ചെക്ക് നടത്തിയപ്പോൾ കോശങ്ങൾ പടരുകയും ന്യൂക്ലിയസുകൾ ലോക്ക് മോഡ് സ്ട്രെസ്സിൽ ആവുകയും ചെയ്തു ഫങ്ഷൻ ഓഫ് സ്റ്റിഫ്നെസ്സ് എടുക്കുമ്പോൾ സെറിൻ 22 ന്റെ ഫോസ്ഫോറിലേഷൻ വിപരീതബന്ധം കാണിക്കുന്നുവെന്ന് അവർ കണ്ടെത്തി നിങ്ങൾ സ്റ്റിഫ്നെസ്സ് കൂട്ടുമ്പോൾ ഫോസ്ഫോറിലേഷൻ കുറയുന്നു പക്ഷെ സോഫ്റ്റ് സബ്സ്ട്രേറ്റുകളിൽ ലാമിൻ ഫോസ്ഫോറിലേഷന്റെ അളവ് വളരെ കൂടുതലാണ് ലാമിൻ ഫോസ്ഫോറിലേറ്റഡ് ആകുമ്പോൾ അത് ഡീഗ്രേഡഡ് ആകുന്നു ഡീഗ്രേഡേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഫലപ്രദമായ രീതിയിൽ ന്യൂക്ലിയർ സോഫ്റ്റനിംഗ് നടക്കുന്നു എന്നാണ് ഇത് ഒരു തരത്തിലുള്ള പ്രവർത്തനമാണ് സബ്സ്ട്രാറ്റ് മൃദുവോ കഠിനമോ എന്നതിനനുസരിച്ച് ഫോസ്ഫോറിലേഷനിൽ മാറ്റമുണ്ടാവുന്നു അതിന്റെ അനന്തരഫലമായി ന്യൂക്ലിയസിന്റെ സ്റ്റിഫ്നെസ്സിൽ മാറ്റമുണ്ടാകുന്നു ഒരു കഠിന പ്രതലത്തിൽ കോശം ലോക്ക് മോഡ് സ്ട്രെസ്സിനു വിധേയമാകുമ്പോൽ സ്ട്രെസ് ഫൈബേർസ് ന്യൂക്ലിയസിനകത്തേക്ക് തള്ളപ്പെടുന്നതിനാൽ ആന്തരികസമ്മർദ്ദം ഉണ്ടാവുന്നു ഇങ്ങനെയുള്ള കേസിൽ ഫോസ്ഫോറിലേഷൻ കുറയുകയും ന്യൂക്ലിയസിന്റെ സ്റ്റിഫ്നെസ്സിനു കാരണമാകുന്ന ഇഫക്റ്റീവ് ലാമിന്റെ അളവ് കൂടുകയും ചെയ്യുന്നു ഇതോടുകൂടി ഞാൻ ഇന്ന് ഇവിടെ നിർത്തുന്നു അടുത്ത ക്ലാസ്സിൽ ലാമിൻ ഫോസ്ഫോറിലേഷനും ലാമിൻ എക്സ്പ്രഷനും സെൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പറയാം